ഇപ്പോൾ നമ്മൾ മൂന്ന് പദങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവ എന്താണ് റൈറ്റ്സ് അഥവാ അവകാശങ്ങൾ എന്താണ് പ്രോപ്പർട്ടി അഥവാ സ്വത്ത് എന്താണ് ഇന്റെലക്ച്വൽ അഥവാ ബുദ്ധിപരത എന്നിവയാണ് ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ടു പോയി ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന് ഒരു നിർവചനം നൽകുവാൻ സാധിക്കണം ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പ്രയോഗത്തിൽ ആക്കാവുന്ന ആശയങ്ങളെയും വ്യവസായിക മൂല്യമുള്ള വിവരങ്ങളെയും സംരക്ഷിക്കുന്നു ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന ശാഖ ആശയങ്ങൾ പ്രയോഗത്തിൽ വരുത്തുന്നതിനെയാണ് സംരക്ഷിക്കുന്നത് അതല്ലാതെ ഈ ആശയങ്ങളെ അല്ല ആശയങ്ങൾ അതിൽ തന്നെ തനിയെ സംരക്ഷിക്കപ്പെടുന്നില്ല മറിച്ച് ആശയങ്ങളുടെ ആവിഷ്കാരത്തെയും അതിൻറെ പ്രായോഗികതയെയുമാണ് സംരക്ഷിക്കുന്നത് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം അഥവാ ചിത്രീകരണം സാഹിത്യ ലോകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഇനമായ കുറ്റാന്വേഷണ കഥകൾ ആണ് നിങ്ങൾ ഒരു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മിക്കവാറും എല്ലാ കുറ്റാന്വേഷണ കഥകളും ഒരു അപസർപ്പക കഥയായിരിക്കും അതായത് കഥാന്ത്യം വരെ കൊലയാളി ആരെന്ന് വെളിപ്പെടുത്താതെ വായനക്കാരെ ഉദ്വേഗഭരിതമായി നിലനിർത്തുന്ന കഥാ കഥന രീതി അല്ലെങ്കിൽ എങ്ങനെ ഒരാൾ ഒരു പ്രത്യേക പ്രവർത്തി ചെയ്യുന്നു എന്ന് വിവരിക്കുന്ന രീതി അപ്പോൾ ഇത് ഒരു സാഹിത്യ രീതിയാണ് ഇവിടെ ഒരു ഇതിവൃത്തം അല്ലെങ്കിൽ കഥാവസ്തു ഉണ്ട് ഇവിടെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്ന ഏതാനും വ്യക്തികളുണ്ട് ഒരു വ്യക്തി പ്രശ്നപരിഹാരകനായി കടന്നു വരുന്നുണ്ട് പതിയെ ഇതിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നു കുറ്റകൃത്യം പരിഹരിക്കപ്പെടുന്നു ഏറ്റവും ചുരുങ്ങിയ പക്ഷം വായനക്കാരന് പ്രശ്നം പരിഹരിക്കുന്ന ആ പ്രക്രിയയിൽ താനും ഒരു പങ്കുകാരനായി എന്ന് ഒരു വലിയ അനുഭവം ലഭിക്കുന്നു അപ്പോൾ ഈ സാഹിത്യരൂപം വളരെ കാലമായി നിലനിൽക്കുന്നതാണ് കഴിവുകളിൽ ഏറ്റക്കുറച്ചിലുള്ള അനേകമാളുകൾ കുറ്റാന്വേഷണ കഥകൾ എഴുതിയിട്ടുണ്ട് എല്ലാവരും ഒരേ ഇതിവൃത്തം ഉപയോഗിക്കുന്നു കഥയിൽ ഒരു സംഭവം അഥവാ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും ചില കഥാകൃത്തുക്കൾ പല കഥാപാത്രങ്ങളെ ഈ പ്രശ്നത്തിന് കാരണക്കാരായി സംശയത്തിൻറെ നിഴലിൽ നിലനിർത്തിക്കൊണ്ട് കഥയെ മുന്നോട്ടു കൊണ്ടുപോകുന്നു എന്നാൽ ചില കഥാകൃത്തുക്കൾ ചെയ്ത വ്യക്തിയെ കൃത്യമായി വെളിച്ചത്ത് കൊണ്ട് വരുന്നു അപ്പോൾ ഇതാണ് കഥയുടെ അപസർപ്പക ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രവർത്തി ചെയ്തത് എന്നത് കുറ്റകൃത്യമായി മാറുന്നു എന്നിട്ട് മറ്റൊരു വ്യക്തിയെ കൊണ്ട് അത് എങ്ങനെ ചെയ്തു എന്ന് വായനക്കാർക്ക് പറഞ്ഞുകൊടുക്കുന്നു അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഒരേ കഥാതന്തുവിനെ അവതരിപ്പിക്കാൻ പല രീതികൾ ഉണ്ടായിരിക്കും ഈ സാഹിത്യ രൂപത്തിൽപെട്ട കഥയുടെ അലെങ്കിൽ നോവലിൻറെ പ്രകൃതി നമുക്ക് ഊഹിക്കാനാവുന്നതാണ് കാരണം അതിൽ എപ്പോഴും ഒരു കുറ്റകൃത്യം ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ആ കുറ്റകൃത്യം സംഭവിച്ചത് എന്നതിന് ഒരു വിശദീകരണം ഉണ്ടായിരിക്കും എങ്ങനെയാണ് ആ കുറ്റകൃത്യം നടന്നത് എന്ന വിവരം ഉണ്ടായിരിക്കും മാത്രമല്ല ആരാണ് ആ കുറ്റകൃത്യം ചെയ്തത് എന്നതിലേക്കുള്ള സൂചനയും ഉണ്ടായിരിക്കും അതായത് മേൽപ്പറഞ്ഞ ഈ കാര്യങ്ങളാണ് ഒരു കുറ്റാന്വേഷണ നോവലിൻറെ ആകെ തുക നോക്കൂ എത്രയോ പുസ്തകങ്ങളാണ് ഈയൊരു സാഹിത്യശാഖയിൽ ഉണ്ടായിരിക്കുന്നത് എത്രയോ കഥാകൃത്തുക്കൾ ആണ് ഈ സാഹിത്യശാഖയിൽ തങ്ങളുടെ കൈവച്ചിരിക്കുന്നത് അഗതാ ക്രിസ്റ്റിയെ പോലുള്ള വലിയ കഥാകൃത്തുക്കൾ എത്രയോ കുറ്റാന്വേഷണ നോവലുകൾ എഴുതിയിരിക്കുന്നു എന്നാലെല്ലാം ഒന്ന് ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരുപക്ഷേ ഒരേ ആശയം ആയിരിക്കും അതും ഒരേ കഥാപാത്രമായിരിക്കും ഈ എല്ലാ കഥകളിലും വരുന്നത് എന്നുവരികിലും ആശയം അവതരിപ്പിച്ചിരിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും ആശയാവതരണത്തിൻറെ രീതി വ്യത്യസ്തമായിരിക്കുന്നതുകൊണ്ടുതന്നെ ഓരോന്നിനും വ്യത്യസ്തമായ റൈറ്റ് അഥവാ അവകാശം ലഭിക്കുകയാണ് അതുകൊണ്ടുതന്നെ അഗതാ ക്രിസ്റ്റിയുടെ എല്ലാ പുസ്തകങ്ങൾക്കും വ്യത്യസ്തമായ കോപ്പിറൈറ്റ് നിലനിൽക്കുന്നു പുസ്തകങ്ങളെല്ലാം നോവലുകളാണ് അതും അവ എല്ലാം തന്നെ കുറ്റാന്വേഷണ നോവലുകളാണ് എന്നതിൻറെ പേരിൽ കോപ്പിറൈറ്റ് നിഷേധിക്കാനാവില്ല ആശയ അവതരണത്തിൻറെ രീതി ഒന്ന് ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നിടത്തോളം ഓരോ കഥാപുസ്തകത്തിനും വ്യത്യസ്തമായ കോപ്പിറൈറ്റ് റൈറ്റ് ലഭിക്കുന്നതാണ് അല്ലാതെ എല്ലാം അപസർപ്പക കഥകളാണ് എന്നതിൻറെ പേരിൽ അവയിലെല്ലാം തന്നെ ഒരേ ആശയവും ഒട്ടു മിക്കവാറും ഒരേ കഥാപാത്രവും ആണ് എന്നതിൻറെ പേരിൽ ഇവയ്ക്ക് വ്യത്യസ്തമായ കോപ്പിറൈറ്റ് നൽകുന്നത് തടയാൻ ആവില്ല ഇത്രത്തോളം പറഞ്ഞതിൽ നിന്നും നമുക്ക് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻറെ സ്വഭാവം എന്തെന്ന് പരിശോധിക്കാം അതുമായി ബന്ധപ്പെട്ട പദങ്ങളെല്ലാം നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞു അവക്ക് ചില ട്രെയ്റ്റ്സ് അഥവാ സവിശേഷ ഗുണങ്ങൾ ഉണ്ട് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻറെ പൊതുവിലുള്ള ചില സവിശേഷ ഗുണങ്ങളെയും ചില പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ട റൈറ്റ്സിൻറെ സവിശേഷ ഗുണങ്ങളെയും നമുക്ക് വേർതിരിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കാം ഏറ്റവും ഒന്നാമത്തെ കാര്യം അവ നിയമത്താൽ സംരക്ഷിതമാണ് എന്നുള്ളതാണ് കാരണം അവ നിയമസംരക്ഷണം കിട്ടാത്ത വിലപ്പെട്ട വിവരങ്ങളോ ആശയങ്ങളോ ആകാമായിരുന്നു എന്നാൽ നമ്മൾ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം നിയമ സംരക്ഷണം ലഭിക്കുന്ന റൈറ്റുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഏത് പ്രത്യേക റൈറ്റും ആയിക്കൊള്ളട്ടെ അതായത് പേറ്റന്റോ കോപ്പിറൈറ്റോ ട്രേഡ് മാർക്ക് ഡിസൈനോ അങ്ങനെ കോപ്പിറൈറ്റിൻറെ കീഴിൽ വരുന്ന ഏതും അതിൽ ഉൾപ്പെടുന്നു അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവ നടപ്പിൽ വരുത്താൻ കഴിയുന്നവയാണ് എന്നതാണ് അതുകൊണ്ട് നമ്മൾ റൈറ്റ് എന്ന് പറയുമ്പോഴെല്ലാം നടപ്പിൽ വരുത്താവുന്നവ എന്ന് നമ്മൾ അർത്ഥമാക്കുന്നു അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തെ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്നു പറയണമെങ്കിൽ അവ നടപ്പിൽ വരുത്താൻ സാധിക്കുന്നത് ആയിരിക്കണം ഒരു ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻറെ സ്വഭാവം എന്നു പറയുന്നത് അത് ആരെയെങ്കിലും അവകാശപ്പെടുത്തുന്നത് ആയിരിക്കണം അത് ഉപയോഗിച്ച് അയാൾക്ക് എന്തെങ്കിലും അവകാശപ്പെടാൻ സാധിക്കണം ഈ അവകാശത്തിന്മേൽ ലംഘനമുണ്ടായാൽ അതിന് തക്ക പരിഹാരവും ഉണ്ടായിരിക്കണം അതുകൊണ്ട് പേറ്റന്റ് സംരക്ഷണം ഉറപ്പു തരുന്നു അതിന്മേൽ കടന്നുകയറ്റം ഉണ്ടായാൽ അവിടെ പരിഹാരവും നിർദേശിക്കുന്നുണ്ട് നമുക്ക് ഒരു വ്യക്തിയെ അവകാശ ലംഘനം ഉളവാകുന്ന പ്രവർത്തി ചെയ്യുന്നതിൽ നിന്ന് തടയുവാൻ സാധിക്കും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ലംഘനത്തിലൂടെ നമുക്കുണ്ടായ കേടുപാടുകൾക്ക് അല്ലെങ്കിൽ നഷ്ടത്തിന് തക്കതായ സാമ്പത്തിക പരിഹാരം അവകാശപ്പെടാൻ സാധിക്കും അപ്പോൾ ആദ്യത്തെ സവിശേഷ ഗുണം എന്ന് പറയുന്നത് അവ നടപ്പിൽ വരുത്താൻ ആവുന്നതാണെന്നുള്ളതാണ് രണ്ടാമത്തെ ട്രയ്റ്റ് അഥവാ സവിശേഷ ഗുണം ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി ഒരു നോർമൽ പ്രോപ്പർട്ടി അഥവാ സാധാരണ സമ്പത്ത് അല്ലെന്നുള്ളതാണ് അതിനു നമുക്ക് ഇൻടാഞ്ജിബിൾ എന്ന വാക്ക് ഉപയോഗിക്കാം ഈ റൈറ്റ്സ് ഇൻടാഞ്ജിബിൾ ആണ് എന്നു വെച്ചാൽ നമുക്ക് അവയെ തൊട്ടു നോക്കി മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിക്കുകയില്ല എന്നർത്ഥം എന്നാൽ അവ അന്തിമ ഉൽപ്പന്നത്തിൽ പ്രകാശിപ്പിക്കപ്പെടുന്നുമുണ്ട് അതുകൊണ്ടുതന്നെ അവയെ ഏതെങ്കിലും വിധത്തിൽ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് വിവിധ രൂപത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ പാർട്സ് നിലവിലുണ്ട് ഒരു പേറ്റൻറിൽ വിവരങ്ങൾ വിശദമായി എഴുതുകയാണ് ചെയ്യുന്നത് അതിനെ നമ്മൾ പേറ്റന്റ് സ്പെസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു ഈപേറ്റന്റ് സ്പെസിഫിക്കേഷൻ പേറ്റന്റ് ഓഫീസിൽ പേറ്റൻറ് പ്രോസിക്യൂഷൻ എന്ന നടപടിക്രമത്തിലൂടെ കടന്നു പോകുന്നു അതിനുശേഷമാണ് പേറ്റന്റ് റൈറ്റ് നിലവിൽ വരുന്നത് ഈ മൊത്തം നടപടിക്രമത്തെ ലളിതമായ ഭാഷയിൽ നമ്മൾ രജിസ്ട്രേഷൻ എന്ന് വിളിക്കുന്നു അതുകൊണ്ട് റൈറ്റ്സ് അഥവാ അവകാശങ്ങൾ നടപ്പിൽ വരുത്താവുന്നയാണ് അവ രജിസ്ട്രേഷൻ നടത്താവുന്നവയുമാണ് ഡിസൈൻസിൻറെ കാര്യത്തിലും ഇതുതന്നെയാണ് സ്ഥിതി ഡിസൈൻസ് ഡിസ്ക്രൈബ് ചെയ്തു ട്രേഡ് മാർക്ക് ആയി രജിസ്റ്റർ ചെയ്യാം ട്രേഡ് മാർക്കുകൾ ഡിസ്ക്രൈബ് ചെയ്തു കോപ്പിറൈറ്റുകളായി രജിസ്റ്റർ ചെയ്യാം കോപ്പിറൈറ്റുകളും ഡിസ്ക്രൈബ് ചെയ്തു രജിസ്റ്റർ ചെയ്യാം ബേൺ കൺവെൻഷനു ശേഷമുണ്ടായ അന്താരാഷ്ട്ര തലത്തിലുള്ള ക്രമീകരണ പ്രകാരം കോപ്പിറൈറ്റുകൾ നിലവിൽ വരുന്നതിന് അവ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല പ്രസാധനം നിർവഹിച്ചു കഴിഞ്ഞ ഒരു പുസ്തകത്തിൻറെ ആദ്യത്തെ താളുകളിൽ തന്നെ പുസ്തകത്തിൻറെ കർത്താവ് അല്ലെങ്കിൽ പ്രസാധകൻ ആ പുസ്തകത്തിൻറെ കോപ്പിറൈറ്റ് അവകാശപ്പെട്ടുകൊണ്ട് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പല വെബ്സൈറ്റുകളുടെയും അടിക്കുറിപ്പായി കോപ്പിറൈറ്റ് അവകാശപ്പെട്ടു കൊണ്ടുള്ള കുറിപ്പടി നിങ്ങൾ കണ്ടു കാണും കാര്യം ഇതാണ് നിങ്ങൾ കോപ്പിറൈറ്റ് അവകാശപ്പെട്ടുകൊണ്ട് നോട്ടീസിട്ടു കഴിഞ്ഞാൽ ആ വർഷത്തിൽ ആ ദിവസം മുതൽ അതിൻറെ അവകാശം നിങ്ങൾ അത് പബ്ലിഷ് ചെയ്തു എന്നതിൻറെ പേരിൽ തന്നെ നിങ്ങൾക്ക് നിലവിൽ വരുന്നതാണ് നിങ്ങൾ അതിൻറെ അവകാശിയായി മാറുന്നു അതുകൊണ്ട് കോപ്പിറൈറ്റ് നിലവിൽ വരുന്നതിന് അത് രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ രജിസ്ട്രേഷൻ നടത്താനുള്ള സാധ്യത നിലവിലുണ്ടുതാനും അപ്പോൾ ഇതാണ് ഇതിൻറെ രണ്ട് ഭാഗങ്ങൾ അതായത് പ്രോപ്പർട്ടി റൈറ്റ് നടപ്പിൽ വരുത്താവുന്നതാണ് എന്നത് അതിൻറെ ഒന്നാം ഭാഗം ഡിസ്ക്രൈബ് ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്തത് രജിസ്റ്റർ ചെയ്യാനും സാധിക്കും എന്നത് അതിൻറെ രണ്ടാംഭാഗം രജിസ്റ്റർ ചെയ്യുന്നതിന് നടപടിക്രമങ്ങൾ ഉണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഓഫീസ് അത് വിശകലനം ചെയ്തു പരിശോധിച്ചതിനുശേഷം നിങ്ങൾക്ക് അതിൻറെ ടൈറ്റിൽ അല്ലെങ്കിൽ അവകാശം അനുവദിച്ചു തരുന്നു പേറ്റന്റ് ലോയിൽ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളെ പേറ്റൻറ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നു അത് നടത്തുന്നത് പേറ്റൻറ് ഓഫീസിലാണ് പേറ്റന്റിൻറെ വിശദീകരിച്ച് എഴുതപ്പെട്ട ഭാഗം പേറ്റന്റ് പ്രോസിക്യൂഷനിലൂടെ കടന്നു പോയതിനു ശേഷം ഒരു വ്യക്തിക്ക് ഒരു അവകാശം സ്ഥാപിച്ചു കിട്ടുകയാണ് അതായത് ഒരു വ്യക്തിക്ക് പേറ്റന്റ് ടൈറ്റിൽ അനുവദിച്ചു കിട്ടുന്നു അതിലൂടെ രജിസ്ട്രേഷൻ നിലവിൽ വരുന്നു ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ സംബന്ധിച്ച് മൂന്നാമത്തെ വസ്തുത അല്ലെങ്കിൽ മൂന്നാമത്തെ സ്വഭാവം എന്നുപറയുന്നത് എളുപ്പത്തിൽ പകർപ്പ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് എന്നതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം മൈക്രോസോഫ്റ്റിന് വിൻഡോസ് സെവൻറെ ആദ്യത്തെ കോപ്പി ഉണ്ടാക്കുവാൻ അവർക്ക് എന്ത് ചിലവ് വന്നു അത് ഏതാനും കോടി ഡോളറുകൾ ആണ് ഇക്കാര്യം അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് R D പോയി പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് അവരുടെ ജീവനക്കാരുടെ ശമ്പളം മറ്റു വിവിധങ്ങളായ ചിലവുകൾ എല്ലാം അവിടെ വിവരിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിൻഡോസ് സെവൻറെ മറ്റൊരു കോപ്പി ഉണ്ടാക്കാൻ എത്ര ചെലവ് വരും അതിന് ഒരു ചെലവും വരുന്നില്ല എന്ന് തന്നെ പറയണം നിങ്ങൾക്ക് ഒരു സിഡിയിലേക്കോ അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവിലേക്കോ പെൻഡ്രൈവിലേക്കോ എല്ലാം അത് പകർത്താനുള്ള കപ്പാസിറ്റി അഥവാ ശേഷി അവയ്ക്കുണ്ടെങ്കിൽ മറ്റൊരു ചെലവുമില്ലാതെ അതിൻറെ ഒരു കോപ്പി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻറെ മറ്റൊരു ട്രെയ്റ്റ് അഥവാ സവിശേഷ ഗുണത്തെ നിർവചിക്കുകയാണ് അതായത് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ആദ്യത്തെ കോപ്പി ഉണ്ടാക്കുക വളരെ ബുദ്ധിമുട്ടുള്ളതും ചിലവേറിയതും ആണ് എന്നാൽ പിന്നീടുള്ള കോപ്പികൾ നിർമ്മിക്കുക വളരെ എളുപ്പമുള്ളതും ചെലവ് കുറഞ്ഞതുമാണ് പുസ്തകങ്ങളെ സംബന്ധിച്ചും ഇക്കാര്യം ശരിയാണ് ഒരു പുസ്തകം എഴുതി പൂർത്തിയാക്കുവാൻ ഒരു എഴുത്തുകാരൻ ഒരുപക്ഷേ വർഷങ്ങൾ തന്നെ എടുത്തിരിക്കാം എന്നാൽ ആ ബുക്ക് സ്കാൻ ചെയ്തു അതിൻറെ പകർപ്പ് ഉണ്ടാക്കി ഈ പൈറേറ്റഡ് കോപ്പി ക്ലൌഡിൽ എവിടെയെങ്കിലും നിക്ഷേപിക്കുക എന്നത് തുലോം എളുപ്പമാണ് എന്നു പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു സിനിമ പൂർത്തിയാക്കുവാൻ മാസങ്ങളുടെ ഒരുപക്ഷേ വർഷത്തിൻറെ തന്നെ അധ്വാനം ഉണ്ടായിരിക്കും പക്ഷേ സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന ഒന്നാണ് സിനിമ തീയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻറെ പൈറേറ്റഡ് കോപ്പി ലഭ്യമാകുന്നു എന്നുള്ളത് ഇതിൽനിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ് ഒരു ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ടാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയതാണെങ്കിലും അതിൻറെ പകർപ്പുകൾ ഉണ്ടാക്കുക എന്നത് വളരെ എളുപ്പം ആണ് എന്ന് കോപ്പികൾ ഉണ്ടാക്കുക എളുപ്പമാണ് എന്നത് ഒരു ട്രെയ്റ്റാണ് പൊതുവായതാണ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ടാക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് എന്നുള്ളതും ഇന്റെലക്ച്വൽപ്രോപ്പർട്ടിയുടെ ഒരു ട്രെയ്റ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിന് പിന്നിൽ ബുദ്ധിപരമായ വ്യായാമം ആവശ്യമാണ് ഇന്നത്തെ ആധുനിക യുഗത്തിൽ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി നിർമ്മിക്കുന്നത് ഗവേഷണ വികസനങ്ങളിലൂടെയാണ് ഈ പ്രക്രിയയിൽ ഒരു പക്ഷേ ഒന്നിലധികം ആളുകൾ പങ്കാളികൾ ആയിരുന്നിരിക്കാം കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഇത് വളരെ ശരിയാണ് തൻറെ വർക്ക് ഷോപ്പിൽ workshopgarage പണിയെടുക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഒരു പുതിയ കണ്ടുപിടുത്തവുമായി വന്നെന്നിരിക്കും ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഇന്ന് ആ വിധത്തിൽ പുരോഗമിച്ചിരിക്കുകയാണ് മിക്കവാറും എല്ലാ കണ്ടുപിടിത്തങ്ങളുടെയും സ്ഥിതി ഇങ്ങനെയാണ് ശാസ്ത്രസാങ്കേതിക രംഗത്തുള്ള അക്കാഡമിക് റൈറ്റിംഗിൻറെ കാര്യത്തിലും ഇത് വളരെ ശരിയാണ് ഇന്ന് നമ്മൾ സാധാരണയായി കാണുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഒന്നിച്ച് ചേർന്ന് എഴുതുന്ന ലേഖനങ്ങളും പേപ്പറുകളും ആണ് ഒറ്റ ഒരു എഴുത്തുകാരൻ എഴുതുന്ന പേപ്പറുകൾ ഇന്ന് തുലോം കുറവാണ് ഇന്ന് പേറ്റന്റ് ചെയ്യപ്പെടുന്ന പല പേറ്റന്റുകളും വ്യക്തികളുടെ കൂട്ടായ പരിശ്രമത്തിൻറെ ഫലമാണ് പലപ്പോഴും ഈ ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ ആയിരിക്കും അവർ ആരുടെ പരിശ്രമങ്ങളെ ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു പുതിയ കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കപ്പെടുന്നു അതുകൊണ്ട് അതൊരു കൂട്ടായ പരിശ്രമം ആണ് ഇനി ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയെ സംബന്ധിക്കുന്ന നാലാമത്തെ വസ്തുത അത് നിർമ്മിക്കുവാൻ ബുദ്ധിപരമായ വ്യായാമം അഥവാ പരിശ്രമം ആവശ്യമാണ് എന്നതാണ് അതായത് അവ മനസ്സിൻറെ സൃഷ്ടികളാണ് ഇവ നിർമ്മിക്കുവാൻ പരിശ്രമം കൂടിയേ തീരൂ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയിൽ ഉൾച്ചേർന്നിരിക്കുന്ന മറ്റൊരു സ്വഭാവം അഥവാ ട്രേറ്റ് എന്നത് ഒരിക്കൽ ഈ പ്രോപ്പർട്ടി നിർമ്മിച്ചു കഴിഞ്ഞാൽ അവ വിലയുള്ളവയാണ് എന്നതാണ് അവയ്ക്ക് വാണിജ്യ മൂല്യമുണ്ട് അല്ലെങ്കിൽ അവ വ്യവസായത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അവയെ വിലയുള്ളതാക്കി തീർക്കാം അതുകൊണ്ട് അവയെ നടപ്പിൽ വരുത്താനും രജിസ്റ്റർ ചെയ്യാനും ഒന്നിലധികം അഥവാ വളരെയധികം പകർപ്പുകൾ ആക്കാനും സാധിക്കും ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയുടെ നിർമ്മാണം ഒരു സൃഷ്ടിപരമായ പരിശ്രമം ആവശ്യപ്പെടുന്നു ഒരുപക്ഷേ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ചേർന്നുള്ള പരിശ്രമം ആയിരിക്കും അതിന് വാണിജ്യ പ്രാധാന്യമുണ്ട് മൂല്യമുണ്ട് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയെ നിർവചിക്കാൻ സഹായിക്കുന്ന അഞ്ച് പ്രധാന വസ്തുതകൾ നമ്മൾ പുറത്തെടുത്തു കാണുകയായിരുന്നു സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ രണ്ടു പദങ്ങൾ കൂടി ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയെ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് അവർ പറയുന്നു ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി നോൺ റിവൽറസ്സ് ഉം നോൺ എക്സ്ക്ലൂഡബിൾ ഉം ആണെന്ന് നോൺ റിവൽറസ്സ് എന്നുപറഞ്ഞാൽ ഒരു ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി ഒരു വ്യക്തി ഉപയോഗിക്കുമ്പോൾ അത് മറ്റൊരാളിൽ മത്സരബുദ്ധിയോ വൈരാഗ്യമോ സൃഷ്ടിക്കുകയില്ല എന്ന് മാത്രമല്ല ഇതരൻ അതേ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ അതിൻറെ സന്തോഷത്തിൽ അഥവാ ആസ്വാദനത്തിൽ അയാൾക്ക് കുറവ് വരുന്നുമില്ല ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയുടെ നോൺ റിവൽറസ്സ് പ്രകൃതി കൂടുതൽ മനസ്സിലാക്കുന്നതിനായി നിങ്ങൾ ക്ലാസ് റൂമിൻറെ വലുപ്പമുള്ള ഒരു മുറിയുടെ ഉടമസ്ഥൻ ആണെന്ന് ഭാവന ചെയ്യുക നിങ്ങൾക്ക് ആ ഒഴിഞ്ഞ മുറിയുടെമേൽ മുഴുവൻ അധികാരവുമുണ്ട് നിങ്ങൾ സംരംഭകത്വ ത്വര ഉള്ള ആളാണെങ്കിൽ ആ മുറി ഉപയോഗിച്ച് നിങ്ങൾക്ക് കുറച്ച് പണമുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനായി നിങ്ങളുടെ മുൻപിൽ ധാരാളം വഴികൾ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മുറിയെ കുഞ്ഞു അറകൾ ആക്കി പല ആളുകൾക്ക് ഉറങ്ങാനായി വാടകയ്ക്ക് കൊടുക്കാം അല്ലെങ്കിൽ ആ മുറി അല്പം കൂടെ നീട്ടി കൂടുതൽ ആളുകൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന ക്ലാസ് റൂം ആയും അതിനുശേഷം ഉറങ്ങാൻ കൊടുത്തു കൊണ്ടും അതിൽനിന്നും കൂടുതൽ പണം സമ്പാദിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ മറ്റൊരു സംരംഭം ചെയ്യുകയും ചെയ്യാം കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംരംഭം തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മുറിയിലെ എല്ലാ ഫർണിച്ചറുകളും മാറ്റി കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ചു കൂടാനും സാമൂഹിക ഇടപെടലുകൾ നടത്തുവാനും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുവാനും സംസാരിക്കുവാനും വിരുന്നു നടത്തുവാനും സാധിക്കുന്ന ഒരു ഇടമാക്കി അതിനെ മാറ്റുവാനും സാധിക്കും നിങ്ങളുടെ വസ്തുവായ മുറി പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ഇത്രയെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനിയും ആളുകളുടെ സഹിഷ്ണുത അനുസരിച്ച് സാമാന്യ വലുപ്പം മാത്രമുള്ള ആ മുറിയിലേക്ക് വേണമെങ്കിൽ 100 പേർക്ക് ഒക്കെ പ്രവേശനം നൽകാം അതുകൊണ്ട് ഒരുപക്ഷേ മുറിയിൽ ആവശ്യമായ വായു സഞ്ചാരം ലഭിക്കാതെ വരികയും മുറി കൂടുതൽ ചൂടാകുകയും ചെയ്താലും ആളുകൾ പരാതിപ്പെടുന്നില്ലെങ്കിൽ മുറി ഏറ്റവും പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിനായി ഇങ്ങനെ 100 പേരെ പ്രവേശിപ്പിക്കാം ഇനിയും അതേ മുറിയിലേക്ക് നിങ്ങൾ ഒരു 500 പേരെ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പോലീസ് നിങ്ങളുടെ വാതിൽക്കൽ എത്തിയിട്ടുണ്ടാകും കാരണം അത് ഒരിക്കലും സാധ്യമല്ല ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് റിയൽ പ്രോപ്പർട്ടി ഉപയോഗപ്പെടുത്തുന്നതിൽ പരിമിതികളുണ്ട് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഈ പരിമിതികൾ ഇല്ല ബെസ്റ്റ് സെല്ലർ ആയ ഒരു പുസ്തകത്തെ എടുക്കൂ എത്രയോ ലക്ഷം കോടി പേർക്ക് ആ പുസ്തകം വാങ്ങി ഒരേ സമയം വായിക്കാനാകും അന്ന് പുറത്തിറങ്ങിയ ഒരു പുതിയ പുസ്തകം വായിക്കുന്ന നിങ്ങളുടെ ചുറ്റും അനേകം ആളുകൾ ഉണ്ടായിരിക്കുകയും കഴിഞ്ഞ 12 മണിക്കൂറായി ഈ പുസ്തകം വാങ്ങുവാൻ വരിയിൽ കാത്തു നിൽക്കുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ അത് വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ ചുറ്റും തടിച്ചുകൂടി അതിലേക്ക് എത്തി വലിഞ്ഞു നോക്കി വായിക്കാൻ പരിശ്രമിക്കും നിങ്ങൾ കുറച്ചുകൂടി സർഗ്ഗാത്മകതയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ പുസ്തകത്തിൻറെ പേജുകൾ സ്കാൻ ചെയ്തു കമ്പ്യൂട്ടറിലൂടെ പ്രൊജക്റ്റ് ചെയ്തു എല്ലാവർക്കും വായിക്കാൻ ലഭ്യമാക്കി എന്നിരിക്കും കുറച്ചുകൂടെ വിശാലമായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം മുഴുവനായി സ്കാൻ ചെയ്ത് അത് ക്ലൌഡിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ വഴിയോ മറ്റ് ആധുനിക ഉപകരണങ്ങൾ വഴിയോ അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഏതൊരാൾക്കും ഒരേസമയം ലോകത്തിൻറെ വിവിധഭാഗങ്ങളിൽ ഇരുന്ന് അത് വായിക്കാനും ആസ്വദിക്കാനും സാധിക്കും ഇതാണ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയുടെ വ്യാപാര സാധ്യത ഇതാണ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയെ റിയൽ പ്രോപ്പർട്ടിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് റിയൽ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നതിനും ആസ്വദിക്കുന്നതിനും പരിമിതികളുണ്ട് എന്നാൽ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നതിനും ആസ്വദിക്കുന്നതിനും യാതൊരു പരിമിതികളും ഇല്ല നോൺ റിവൽറസ്സ് എന്നതുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരാൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റൊരാളുടെ ഉപയോഗത്തെ ഒരു വിധത്തിലും ഹനിക്കുന്നില്ല എന്നർത്ഥം എല്ലാവർക്കും ഒരേ അളവിൽ അത് അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിക്കുന്നു നമ്മൾ വിവരിച്ചതുപോലെ ഒരു ബെസ്റ്റ് സെല്ലർ പുസ്തകത്തിൻറെ ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ഒരേപോലെ അതിൻറെ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു അതിൻറെ പേരിൽ ആരുടേയും അവകാശം ഹനിക്കപ്പെടുന്നില്ല ആരുടേയും ആസ്വാദന സാധ്യതയ്ക്ക് ഭംഗം നേരിടുന്നില്ല എല്ലാവർക്കും ഒരേസമയം അത് വായിക്കാൻ സാധിക്കുന്നു ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മുറി പല ആളുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ഒരു മുറി ഉപയോഗിക്കുന്നതിന് അതിൻറെതായ പരിധികളും പരിമിതികളുമുണ്ട് എന്നാൽ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉപയോഗിക്കുന്നതിന് യാതൊരു പരിധികളും പരിമിതികളും ഇല്ല എന്നതാണ് ഒരു ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയുടെ നോൺ റിവൽറസ്സ് സ്വഭാവം എന്ന് പറയുന്നത് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി നോൺ എക്സ്ക്ലൂഡബിൾ ആണെന്നും അത് അതിൻറെ ഒരു ഒരു സവിശേഷ ഗുണം ആണെന്നും നമ്മൾ കണ്ടു നോൺ എക്സ്ക്ലൂഡബിൾ എന്നു പറഞ്ഞാൽ ഇതാണ് അർത്ഥമാക്കുന്നത് അതായത് ആരെങ്കിലും ഒരു ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ തടസ്സം നിൽക്കാൻ സാധിക്കുകയില്ല ഉദാഹരണത്തിന് ആരെങ്കിലും ഒരു പുസ്തകം സ്കാൻ ചെയ്തു യൂട്യൂബ് വഴി അത് തൽസമയ പ്രക്ഷേപണം ചെയ്യുന്നുണ്ടായിരിക്കാം അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പുസ്തകത്തിൻറെ ഒരു പേജ് തുറന്നു ആളുകൾക്ക് വായിക്കാൻ ആവശ്യമായ അത്രയും സമയം പിടിച്ചു നിൽക്കുകയാണ് തുടർന്ന് അടുത്ത പേജ് മറിച്ച് അങ്ങനെ തന്നെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുക വഴി അദ്ദേഹം പുസ്തകം യൂട്യൂബ് വഴി തൽസമയ പ്രക്ഷേപണം ചെയ്യുകയാണ് ഇപ്പോൾ ഈ പുസ്തകം തൽസമയം കാണുന്നതിന് എത്ര ആളുകൾക്ക് വേണമെങ്കിലും സാധിക്കും എന്താണെന്നാൽ വ്യക്തി ഈ പുസ്തകം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു ഇനി യൂട്യൂബ് വഴി ഈ പുസ്തകം ലഭ്യമാകുന്ന ആരെയും തന്നെ അത് കാണുന്നതിൽ നിന്നും ആസ്വദിക്കുന്നതിൽ നിന്നും തടയുവാൻ ആർക്കും സാധിക്കുകയില്ല അപ്പോൾ ഒരിക്കൽ മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ ഒരു വസ്തുവിനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് കാണുന്നതിൽ നിന്നും ആസ്വദിക്കുന്നതിൽ നിന്നും ആരെയും തടയുവാനോ ഒഴിവാക്കാനോ ആർക്കും സാധിക്കുകയില്ല അപ്പോൾ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിക്കുള്ള മറ്റൊരു ട്രെയ്റ്റ് ആണ് ഇത് ഒരിക്കൽ ഒരു ജീവൻ രക്ഷാ മരുന്ന് കമ്പോളത്തിൽ ലഭ്യമായാൽ ആ മരുന്ന് നിർമാതാക്കളുടെ എതിരാളികൾക്ക് നിർമ്മാതാക്കളുടെ അനുമതി ഇല്ലാതെതന്നെ മരുന്നിൻറെ വിശദാംശങ്ങൾ എടുത്ത് പരിശോധിക്കുന്നതിനും അത് പോലുള്ള മരുന്ന് നിർമ്മിക്കുന്നതിനും സാധിക്കും അതുകൊണ്ട് ഒരിക്കൽ പുതുതായി ലഭ്യമായാൽ പിന്നെ അത് ഉപയോഗിക്കുന്നതിൽ നിന്നോ അത് എങ്ങനെ നിർമ്മിച്ചു എന്ന് മനസ്സിലാക്കുന്നതിൽ നിന്നോ മറ്റുള്ള ആളുകളെ തടയുന്നതിന് സാധിക്കുകയില്ല ഈ രണ്ട് ട്രെയ്റ്റ്സ് അഥവാ സവിശേഷഗുണങ്ങൾ അതായത് നോൺ റിവൽറസ്സ് നോൺ എക്സ്ക്ലൂഡബിൾ എന്നിവ പബ്ലിക് ഗുഡ്സ് അതായത് പൊതു വസ്തുക്കൾ പങ്കുവയ്ക്കുന്ന സ്വഭാവസവിശേഷതകൾ ആണെന്ന് സാമ്പത്തികരംഗത്തുള്ളവർ പറയുന്നു പബ്ലിക് ഗുഡ്സ് അഥവാ പൊതു വസ്തുക്കൾ അവയുടെ നിർവചനത്തിൽ തന്നെ നോൺ റിവൽറസ്സും നോൺ എക്സ്ക്ലൂഡബിളും ആകുന്നു ഉദാഹരണത്തിന് നാഷണൽ സെക്യൂരിറ്റി ദേശീയ സുരക്ഷ എന്നത് എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകുന്നതാണ് ഏതെങ്കിലും ഒരു പ്രത്യേക ഗണത്തിൽ പെട്ട ആളുകൾക്ക് മാത്രം ലഭ്യമാകുന്നതാണ് എന്ന് പറയുക സാധ്യമല്ല രാജ്യത്തിൻറെ അതിരുകൾക്കുള്ളിൽ താമസിക്കുന്ന എല്ലാവർക്കും അത് ലഭ്യമാണ് ഇനി നമുക്ക് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻറെ നിർവ്വചനത്തിലേക്ക് പോകാം അംഗീകരിക്കപ്പെട്ട ഒരു നിർവചനം ഇരുവരെയും ഇല്ല എന്ന് വരികിലും നമ്മൾ ഡിക്ഷ്ണറിയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ ഇങ്ങനെ നിർവചിക്കാം ഒരു ആശയത്തിൻറെ പ്രയോഗപരതയെയും വാണിജ്യപ്രാധാന്യമുള്ള വിവരങ്ങളെയും സംരക്ഷിക്കുന്നതാണ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് സൃഷ്ടിപരമായ അധ്വാനത്തെ സംരക്ഷിക്കുന്നതാണ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്നത് മറ്റൊരു നിർവചനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം നിർവചനങ്ങൾ കണ്ടെത്താൻ സാധിക്കും നിർവചനങ്ങൾ നിങ്ങൾക്ക് പലവ്യഞ്ജന പട്ടിക പോലെ അനേകം കാര്യങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെ പ്രദാനം ചെയ്യുകയും ഇവയെല്ലാം ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണെന്ന് പറയുകയും ചെയ്യും ഉദാഹരണത്തിന് വൈപോ വേൾഡ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻസിൻറെ കീഴിൽ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് കൈകാര്യംചെയ്യുന്ന സ്ഥാപനമാണിത് വൈപോ ഒരു നിർവചനം നൽകുന്നുണ്ട് അതൊരു ദൈർഘ്യമുള്ള നിർവചനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പലവ്യഞ്ജന പട്ടിക പോലെ തന്നെ അതിൽ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻറെ പരിധിയിൽ ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൃത്യമായി അവകാശത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഉണ്ട് അവകാശങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്ന ചില കാര്യങ്ങളും ആ പട്ടികയിലുണ്ട് വൈപോ നൽകുന്ന നിർവചനത്തിൽ അവർ കോപ്പിറൈറ്റിനെക്കുറിച്ചും പേറ്റൻറിനെ കുറിച്ചും ട്രെഡ് മാർക്ക് ഡിസൈൻസിനെകുറിച്ചും അതുപോലുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് വൈപോ നൽകുന്ന നിർവചനത്തിൽ ഉള്ള ഒരു പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ വൈപോ യുടെ നിർവചനത്തിൽ അവർ പുതുതായി രൂപംകൊള്ളുന്ന പ്രോപ്പർട്ടി റൈറ്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഗവേഷണവും വികസനവും പുരോഗമിക്കവേ ഇന്നത്തെ കാലത്ത് ധാരാളം പുതിയ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടികൾ രൂപം കൊള്ളുന്നുണ്ട് ഈ വസ്തുത വൈപോ കണക്കിലെടുക്കുന്നില്ല വൈപോ നൽകുന്ന നിർവചനത്തിലുള്ള രണ്ടാമത്തെ പോരായ്മയായി പറയുന്നത് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ മനസ്സിലാക്കാൻ ഒരു വിധത്തിലുള്ള അളവുകോലുകളും ഇല്ല എന്നുള്ളതാണ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻറെ നിർവചനത്തെ നമ്മൾ സമീപിക്കുമ്പോൾ രണ്ടു തരത്തിൽ നമുക്ക് കാണാം ഒന്ന് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേക സ്വഭാവത്തിൽപ്പെട്ട അവകാശങ്ങൾ അവ മനുഷ്യൻറെ സൃഷ്ടിപരവും ബുദ്ധിപരവുമായ അധ്വാന ഫലങ്ങൾ സംരക്ഷിക്കുന്നു മറ്റൊന്ന് നമുക്ക് വസ്തുതകളുടെ ഒരു പട്ടിക ലഭിക്കുന്നു പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് വെളിപ്പെടുത്തപ്പെടുന്നു പലതരത്തിലും ഇനത്തിലും പെട്ട ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട് മനുഷ്യൻറെ സൃഷ്ടിപരവും ബുദ്ധിപരവുമായ അധ്വാനത്തിൽ നിന്നുണ്ടാകുന്ന അന്തിമമായ ഫലം വ്യത്യാസപ്പെട്ടിരിക്കുന്നതനുസരിച്ച് റൈറ്റുകളും വ്യത്യസ്തമായിരിക്കുന്നു മനുഷ്യൻറെ അധ്വാന ഫലത്തിന് അനുസൃതമായ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെത്തന്നെ ഒരു പ്രശ്നം ഉദിക്കുകയായി കാരണം ഇന്ന് നമുക്ക് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് അതായത് ഭൂമിശാസ്ത്രപരമായ സൂചനകൾ ലഭ്യമാണ് എന്നാൽ ഇതുവരെ സാങ്കേതികമായി ക്രിയാത്മകമായ ഒരു മനുഷ്യ പ്രയത്നവും ഈ മേഖലയിൽ ലഭ്യമല്ല എന്തുതന്നെയായാലും നമ്മൾ എപ്പോഴൊക്കെ മനുഷ്യൻറെ സൃഷ്ടിപരമായ അധ്വാനത്തിന് ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നവോ അപ്പോഴൊക്കെ നമ്മൾ പരാമർശിക്കുന്നത് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഉൽഭവത്തെയാണ് കാരണം ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി ഉൽഭവിക്കുന്നത് കോപ്പി റൈറ്റിലൂടേയും പേറ്റൻറിലൂടേയുസാണ് ഇവ രണ്ടുമാണ് ഏറ്റവും ആദ്യത്തെ റൈറ്റ്സ് അതുകൊണ്ട് ആവർത്തിക്കുകയാണ് വിവിധ തരത്തിൽ പെട്ട റൈറ്റ്സ് ഉണ്ട് ഓരോ തരത്തിൽപെട്ട റൈറ്റും വിവിധ ഇനത്തിൽപ്പെട്ട പ്രോഡക്ടുകളെ പ്രതിനിധാനം ചെയ്യുന്നു കണ്ടുപിടുത്തങ്ങളെ സംരക്ഷിക്കുന്നതിന് നമ്മൾ പേറ്റന്റ്സ് ഉപയോഗിക്കുന്നു കണ്ടുപിടിത്തം എന്ന് നമ്മൾ പറയുമ്പോഴെല്ലാം നമ്മൾ പരാമർശിക്കുന്നത് സാങ്കേതിക കണ്ടുപിടിത്തങ്ങളെയാണ് Copyright കോപ്പിറൈറ്റ് സംരക്ഷിക്കുന്നത് താഴെ പറയുന്നവയാണ് സാഹിത്യപരവും സർഗാത്മകവുമായ അധ്വാന ഫലങ്ങൾ സാഹിത്യപരവും കലാപരവുമായ അധ്വാന ഫലങ്ങൾ സൌണ്ട് ട്രാക്ക്സ് വീഡിയോസ് സിനിമറ്റോഗ്രാഫി കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് മുതലായവ കണ്ണുകൊണ്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നവയെ സംരക്ഷിക്കുന്നതിനാണ് ഡിസൈൻസ് ഉദാഹരണത്തിന് ഡിസൈൻസിൻറെ നിയമവും പേറ്റന്റിൻറെ നിയമവും വ്യത്യസ്തമാണ് കാരണം പ്രവർത്തന യോഗ്യമായ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുന്ന ഒന്നിനെ സംരക്ഷിക്കുവാൻ ഒരിക്കലും ഡിസൈൻസ് ഉപയോഗിക്കുന്നില്ല കണ്ണിനെ ആകർഷിക്കുന്നവയെ അഥവാ ദൃഷ്ടി ഗോചരമായവയെ സംരക്ഷിക്കുന്നതിനാണ് ഡിസൈൻസ് ഉപയോഗിക്കുന്നത് അവക്ക് പ്രത്യേകമായ പ്രവർത്തനക്ഷമത ആവശ്യമില്ല ഒരു വ്യവസായവുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങളെയോ ചിഹ്നങ്ങളെയോ സംരക്ഷിക്കുന്നതിനാണ് ട്രേഡ് മാർക്സ് ഉപയോഗിക്കുന്നത് ഭൌമസൂചികകൾ അഥവാ ഭൂമിശാസ്ത്രപരമായ സൂചനകൾ ഒരു പ്രത്യേക ഉൽപ്പന്നത്തിൻറെ ഉത്ഭവസ്ഥാനത്തെ പരാമർശിക്കുന്നതിന് ഉപയോഗിക്കുന്നു ഒരു വ്യവസായത്തിൻറെ ഉടമസ്ഥൻ വ്യവസായത്തെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ട്രേഡ് സീക്രട്ട് ഉപയോഗിക്കുന്നു ഇനിയും മറ്റുചില ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടികൾ കൂടി വിവരിക്കാൻ ഉണ്ട് അവ നമ്മൾ വഴിയെ വിവരിക്കുന്നതായിരിക്കും